ഊർജ്ജ സംരക്ഷണവും ഉപയോഗശൂന്യമാകാവുന്ന ചൂട് വീണ്ടെടുക്കലും എന്ന ആശയം സംബന്ധിച്ച നമ്മളുടെ കോഴ്സിന്റെ അടുത്ത പ്രഭാഷണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തെർമോ ഇലക്ട്രിക് ജനറേറ്ററുകളെക്കുറിച്ചുള്ള നമ്മളുടെ ചർച്ച അവസാനിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കും നമ്മൾ അവസാനമായി ചെയ്തത് ഒരു തെർമോ ഇലക്ട്രിക് മൊഡ്യൂളിന്റെ കാര്യക്ഷമത വിശകലനം നടത്താൻ ശ്രമിച്ചു നമ്മൾ ഈ എക്സ്പ്രഷൻ കൊണ്ടുവന്നു തെർമോ ഇലക്ട്രിക് ജനറേറ്ററിന്റെ കാര്യക്ഷമത ഒരു കൂട്ടം പാരാമീറ്ററുകളെ ആശ്രയിച്ചിരിക്കുന്നു ഇത് രണ്ട് ജംഗ്ഷനുകളുടെയും താപനിലയുടെ ഒരു ഫംഗ്ഷനായിരുന്നു അതായത് TH TC ഇത് ഈ പ്രോപ്പർട്ടികളുടെ ഒരു പ്രവർത്തനമായിരുന്നു ഇത് Z ആണ് ഇത് സീബെക്ക് കോയെഫിഷ്യന്റിനെ P N ജംഗ്ഷനുകളുടെ വൈദ്യുത പ്രതിരോധങ്ങളുടെയും താപ ചാലകതകളുടെയും ഉൽപ്പന്നം കൊണ്ട് ഹരിക്കുന്നതാണ് ഇത് ഈ പരാമീറ്ററിനെ ആശ്രയിച്ചിരിക്കുന്നു അത് പ്രതിരോധ അനുപാതമായ m ആണ് P N ജംഗ്ഷനുകളുടെ പ്രതിരോധം കൊണ്ട് വിഭജിച്ച ബാഹ്യ ലോഡിന്റെ അനുപാതമാണിത് കൂടാതെ നിങ്ങൾ ഇത് നോക്കുകയാണെങ്കിൽ ഈ ഫോർമുല വളരെ മനോഹരമാണ് കാരണം നമ്മൾ ഇവിടെ കാണുന്ന ആദ്യത്തെ ഭാഗം കാർനോട്ട് കാര്യക്ഷമതയാണ് ബാക്കിയുള്ളത് പ്രതിരോധം താപനില മെറ്റീരിയൽ ജ്യാമിതീയ ഗുണങ്ങൾ എന്നിവയുടെ സംയോജനമായ മറ്റ് പാരാമീറ്ററുകളാണ് അതിനാൽ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശകലനം ചെയ്യാൻ പോകുന്നു ഇത് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു സാധാരണ രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് ലഭ്യമായ താപ സ്രോതസ്സിനെ ആവശ്യമായ രീതിയിൽ ഉപയോഗിക്കണം എന്നതാണ് പ്രധാനം ഉദാഹരണത്തിന് നീരാവി ആയ താപ സ്രോതസ്സ് 150oC ആണെങ്കിൽ എന്റെ TH 150 ഡിഗ്രി ആണ് എനിക്ക് അത് ഇനി വർദ്ധിപ്പിക്കാൻ കഴിയില്ല അതിനാൽ TH TC എന്നിവ നമുക്ക് നിയന്ത്രണമില്ലാത്ത ഒന്നാണെന്ന് നമുക്ക് അനുമാനിക്കാം എന്നാൽ Tc ആംബിയന്റ് താപനിലയോ ഉയർന്ന അന്തരീക്ഷ താപനിലയോ ആയിരിക്കും നമുക്ക് അതിനെ കൂടുതൽ താഴ്ത്താൻ കഴിയില്ല അതിനാൽ നമുക്ക് എന്ത് മാറ്റാനാകും നിങ്ങൾ ഈ എക്സ്പ്രഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾക്ക് m നെ ഉപയോഗിച്ച് മാറ്റങ്ങൾ വരുത്താം അല്ലെങ്കിൽ നമുക്ക് Z ഉപയോഗിച്ച് മാറ്റങ്ങൾ വരുത്താം അപ്പോൾ അങ്ങനെ ചെയ്ത് നമുക്ക് എന്ത് കിട്ടുമെന്ന് നോക്കാം അതിനാൽ ƞTEG എന്നത് 1 Z 2 m എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് ഞാൻ പറയും ഇവിടെ m എന്നത് പ്രതിരോധ അനുപാതമാണ് അതിനാൽ നമുക്ക് അവ ഓരോന്നായി എടുക്കാം ആദ്യത്തേത് Z ഡിപെൻഡൻസ് നമുക്ക് കാണാൻ കഴിയുന്നതാണ് Z മുകളിലേക്ക് പോകുന്തോറും എന്റെ ƞ യും ഉയരുന്നു എന്ന് വ്യക്തമായി കാണിക്കാൻ കഴിയും Z വർദ്ധിക്കുമ്പോൾ എന്റെ കാര്യക്ഷമതയും വർദ്ധിക്കുന്നു എന്താണ് z ഇത് α2PNRK ആണ് അപ്പോൾ ഇത് എന്താണ് അർത്ഥമാക്കുന്നത് Zmax എന്നത് R K എന്നിവയുടെ ഏറ്റവും കുറഞ്ഞ മൂല്യവുമായി പൊരുത്തപ്പെടും അതിനാൽ നമുക്ക് അത് ചെയ്യാം എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം അതിനാൽ R K ρP LPAP ρN LNANKPതാപ ചാലകത APLP KN ANLN അതിനാൽ ഞാൻ ഇവിടെ എന്തുചെയ്യും വിസ്തീർണ്ണവും നീളവും തമ്മിലുള്ള അനുപാതം ഞാൻ നിർവചിക്കാൻ പോകുകയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് എളുപ്പമാകുന്നതിന് വേണ്ടിയാണിത് അപ്പോൾ എനിക്ക് ഇത് എല്ലായ്പ്പോഴും എഴുതേണ്ടതില്ല ഇപ്പോൾ ഞാൻ പറയുന്നത് 𝛾P APLP 𝛾N ANLN എന്നാണ് ഇവിടെ ഇത് കാര്യങ്ങൾ ലളിതമാക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇത് എന്തായിത്തീരുന്നു

𝛾N എന്നാകും ഇത് ന്യായവും ലളിതവുമാണ് അതിനാൽ തന്നിരിക്കുന്ന മെറ്റീരിയലിന് ρ K എന്നിവ നിശ്ചയിച്ചിരിക്കുന്നു അതിനാൽ ഇത് എനിക്ക് ഇങ്ങനെ എഴുതാം ρP ρN KP KN ഇവയെല്ലാം ഭൌതിക ഗുണങ്ങളാണ് മറുവശത്ത് 𝛾P 𝛾N എന്നിവ ജ്യാമിതീയ ഗുണങ്ങളാണ് അതിനാൽ ഇതെല്ലാം ഉപയോഗിച്ച് എനിക്ക് മാറ്റങ്ങൾ വരുത്താം പക്ഷേ മെറ്റീരിയലുപയോഗിച്ചു എനിക്ക് മാറ്റം വരുത്താൻ കഴിയില്ല തന്നിരിക്കുന്ന കുറച്ചു മെറ്റീരിയലുകൾ ഉപയോഗിച്ച് എനിക്ക് മാറ്റം വരുത്താം ഞാൻ ഇത് പോലെ d R K d 𝛾N𝛾P എന്ന് എഴുതും ഞാൻ ഇത് 0 ആയി സജ്ജീകരിക്കും ഇത് സൂചിപ്പിക്കുന്നത് ρPKN ρN 𝛾N𝛾P 2 അല്ലെങ്കിൽ കൂടുതൽ ലളിതമാക്കി 𝛾N𝛾P√ρN KN അതുപോലെ ഇത് സൂചിപ്പിക്കുന്നത് Zmax αPN √ρP KP √ρNKN2 അതിനാൽ ഇത് ഒരു നിശ്ചിത മെറ്റീരിയലുകൾക്കുള്ളതാണ് അതായത് തന്നിരിക്കുന്ന ഒരു കൂട്ടം മെറ്റീരിയലുകൾക്കായി എനിക്ക് ജ്യാമിതീയ പാരാമീറ്ററുകളിൽ മാറ്റങ്ങൾ വരുത്തി ഉപയോഗിക്കാൻ കഴിയും ഞാൻ ഈ സമവാക്യം നോക്കുകയാണെങ്കിൽ ഈ എക്സ്പ്രഷന് തൃപ്തികരമാകുന്ന തരത്തിൽ നീളവും വിസ്തീർണ്ണവും ഞാൻ തിരഞ്ഞെടുക്കുന്നു അങ്ങനെ ആ മെറ്റീരിയലുകളുടെ Z max ലഭിക്കും ഇപ്പോൾ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം ഒരുപക്ഷേ വളരെ പ്രധാനപ്പെട്ടതാണ് തെർമോഇലക്ട്രിക്സിനെ കുറിച്ചുള്ള ഏതെങ്കിലും ഗവേഷണത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് R K ആണ് ഒരിക്കൽ കൂടി ഇത് നോക്കു ഞാൻ ഒരു നിശ്ചിത അളവിനായി നോക്കുകയാണെങ്കിൽ മുമ്പത്തെതിൽ നമ്മൾ ചെയ്തത് മെറ്റീരിയലുകൾ നൽകിയിട്ടുണ്ടെന്ന് അനുമാനിക്കുകയും അളവുകൾ ഉപയോഗിച്ച് മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തു ഇപ്പോൾ അളവുകൾ ശരിയാണെന്ന് പറയാം എനിക്ക് മാറ്റങ്ങൾ വരുത്താൻ കഴിയും പക്ഷേ ഇത് കൂടുതൽ ഉയർന്നതാക്കാൻ എനിക്ക് മറ്റെന്താണ് ചെയ്യാൻ കഴിയുക തെർമോഇലക്ട്രിക്കിന്റെ ഈ പ്രകടനം പരമാവധിയാക്കാൻ നമുക്ക് ഉണ്ടായിരിക്കേണ്ട വസ്തുക്കൾ ഏതൊക്കെയാണ് ഇത് നോക്കിയാൽ ഒരു അപാകത ഉണ്ടെന്ന് നിങ്ങൾ കാണുന്നു നിങ്ങൾക്ക് മൂന്ന് പദങ്ങളുണ്ട് α താപ പ്രതിരോധം വൈദ്യുത ചാലകത എന്നിവയുണ്ട് അതിനാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എനിക്ക് α പരമാവധിയാക്കണം എനിക്ക് വൈദ്യുത പ്രതിരോധം കുറയ്ക്കണം കൂടാതെ താപചാലകത കുറയ്ക്കണം അതിനാൽ Z ന്റെ ഉയർന്ന മൂല്യത്തിന് എന്റെ R കുറവായിരിക്കണം കൂടാതെ എന്റെ താപ ചാലകതയും കുറവായിരിക്കണം അതിനാൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ എനിക്ക് ഒരു നല്ല ഇലക്ട്രിക്കൽ കണ്ടക്ടറും മോശം തെർമൽ കണ്ടക്ടറും വേണം ഇപ്പോൾ നിർഭാഗ്യവശാൽ ഈ രണ്ടു കാര്യങ്ങളും തൃപ്തിയായി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് വളരെ നല്ല ഒരു ഇലക്ട്രിക്കൽ കണ്ടക്ടർ ഉണ്ടായിരിക്കുക എളുപ്പമല്ല അത് ഒരേ സമയം ഒരു മോശം താപ ചാലകമായിരിക്കുകയും വേണം അവ രണ്ടും പരസ്പരം ബന്ധപ്പെട്ടു പോകുന്നു ഉദാഹരണത്തിന് ലോഹങ്ങൾക്ക് രണ്ടും ഇലക്ട്രോണുകളുടെ ചലനത്താൽ നിയന്ത്രിക്കപ്പെടുന്നു അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഒരു നല്ല ഇലക്ട്രിക്കൽ കണ്ടക്ടറും മോശം തെർമൽ കണ്ടക്ടറും ലഭിക്കും അതുപോലെ അലോഹങ്ങളിലും നിങ്ങൾക്ക് താപ ചാലകതയുണ്ട് ഇലക്ട്രോൺ ചലനം കാരണമാകുന്ന ഘടകങ്ങൾ നിങ്ങൾക്കുണ്ട് ലാറ്റിസ് വൈബ്രേഷനുകൾ കാരണമാകുന്ന ഘടകങ്ങളും നിങ്ങൾക്ക് ഉണ്ട് അവയെ ഫോണോണുകൾ എന്നും അറിയപ്പെടുന്നു അതിനാൽ കഴിഞ്ഞ 60 70 വർഷങ്ങളായി ഭൌതിക ശാസ്ത്രജ്ഞർ കൂടുതലും Z ന്റെ മൂല്യം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന മെറ്റീരിയലുകൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം പക്ഷേ നിർഭാഗ്യവശാൽ 1950 മുതൽ 2000 ന്റെ ആരംഭം വരെ ഏകദേശം 50 വർഷക്കാലം ഈ പഠനത്തിൽ മാറ്റങ്ങൾ ഇല്ലാതെ തുടർന്നു ധാരാളം ഫോർമുലേഷനുകൾ ധാരാളം പുതിയ മെറ്റീരിയലുകൾ വികസിപ്പിച്ചെടുത്തു പക്ഷേ ഒടുവിൽ നിങ്ങൾ ഇത് പ്രായോഗികമായി ഉപയോഗിക്കുമ്പോൾ നമ്മൾ എല്ലാവരും Zt യുടെ മൂല്യം 1 ന് തുല്യമായാണ് ഉപയോഗിക്കുന്നത് അതിനാൽ Zt എന്നത് ഓർമ്മിക്കുക കാരണം അത് നോൺ ഡൈമൻഷണൽ ആയി മാറുന്നു ആ മൂല്യമാണ് പലപ്പോഴും ഉപയോഗിക്കുന്നത് അതിനാൽ നൽകിയിരിക്കുന്ന അളവുകൾക്കായി നമ്മൾ വളരെക്കാലമായി Zt എന്നത് ഒന്നിന് തുല്യമായി കണ്ടു തുടർന്ന് സംഭവിച്ചത് നാനോടെക്നോളജിയിലെ മുന്നേറ്റം കാരണം ഏതാണ്ട് രണ്ട് ഗ്രൂപ്പുകൾ സമാന്തരമായി ബിസ്മത്ത് ടെല്ലൂറൈഡ് സൂപ്പർലാറ്റിസുകളെ അടിസ്ഥാനമാക്കിയുള്ള മെറ്റീരിയലുകൾ കൊണ്ടുവന്നു നാനോ സ്കെയിലിൽ ഈ ലാറ്റിസുകളെ വളർത്താനും ഇലക്ട്രോണുകൾക്ക് കടന്നുപോകാൻ കഴിയുന്ന അളവുകളിൽ വളർത്താനും അവർക്ക് കഴിഞ്ഞു കാരണം അവയുടെ വൈബ്രേഷന്റെ ശരാശരി സ്വതന്ത്ര പാത കുറവാണ് അതിനാൽ അത് ഇലക്ട്രോണുകളെ കടന്നുപോകാൻ അനുവദിക്കും അതിനാൽ വൈദ്യുതചാലകതയെ ബാധിക്കില്ല പക്ഷേ എന്നിരുന്നാലും ഇത് ഫോണോണുകളുടെ ചലനത്തെ തടയുകയും അതുവഴി താപ ചാലകതയെ ബാധിക്കുകയും താപ ചാലകത തടയുകയും ചെയ്യും അതിനാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഗവേഷണ കഥയിൽ നിന്നുള്ള ഒരു സൈഡ് നോട്ട് മാത്രമാണ് വീണ്ടും പറയുകയാണെങ്കിൽ മോശം താപ ചാലകതയും നല്ല വൈദ്യുത ചാലകതയുമുള്ള ഒരു മെറ്റീരിയൽ ഉണ്ടാക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് എന്നാൽ ഏകദേശം 10 15 വർഷങ്ങൾക്ക് മുമ്പ് രണ്ട് ഗവേഷക സംഘങ്ങൾ സമാന്തരമായി നാനോ സ്കെയിലിലെ സൂപ്പർലാറ്റിസ് ഘടനകൾ കൊണ്ടുവന്നു അപ്പോൾ എന്താണ് സംഭവിച്ചത് ഇലക്ട്രോണുകൾക്ക് വൈബ്രേഷന്റെ കുറഞ്ഞ ശരാശരി സ്വതന്ത്ര പാത ലഭിച്ചതിനാൽ അത് ഇലക്ട്രോണുകളെ ഒഴുകാൻ അനുവദിക്കും പക്ഷേ അത് ഫോണോണുകളുടെ ചലനത്തെ തടയുകയും അതുവഴി ലാറ്റിസ് വൈബ്രേഷനുകളെയോ ലാറ്റിസ് ചലനങ്ങളെയോ തടയുകയും അതുവഴി താപ ചാലകതയെ കുറക്കുകയും ചെയ്യും തൽഫലമായി നമ്മൾക്ക് നല്ല വൈദ്യുതി കണ്ടക്ടറായതും എന്നാൽ വളരെ മോശം താപ ചാലകവുമായ മെറ്റീരിയലുകൾ ലഭിച്ചു അതിന്റെ ഫലമായി എന്താണ് സംഭവിച്ചതെന്നാൽ ലാബ് സ്കെയിലിലെങ്കിലും വളരെക്കാലമായി ഒന്നിൽ കുടുങ്ങിയ Zt മൂല്യം ഏകദേശം 2 5 ആയി കാണപ്പെട്ടു ഫോണോണുകളെ തടഞ്ഞുനിർത്തുകയും ഇലക്ട്രോണുകളെ കടന്നുപോകാൻ അനുവദിക്കുകയും ചെയ്യുന്ന ഈ ഘടനകളെ നാനോ സ്കെയിൽ അളവുകളിൽ വളർത്താൻ നമ്മൾക്ക് കഴിഞ്ഞതുകൊണ്ടാണ് ഈ കാര്യം സാധ്യമായത് അതിനാൽ മെറ്റീരിയലുകളുടെ ഗവേഷണത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ സ്റ്റോറിയായിരുന്നു ഇത് Z ന്റെ മൂല്യം പരമാവധിയാക്കാൻ ഇത് നമ്മളെ സഹായിക്കുന്നു ഇപ്പോൾ നമ്മൾ നോക്കുന്ന കാര്യത്തിലേക്ക് വീണ്ടും മടങ്ങിവരുന്നു നമ്മളുടെ നിയന്ത്രണത്തിലുള്ള ജ്യാമിതീയ പാരാമീറ്ററുകൾ ഉപയോഗിച്ച് മാറ്റങ്ങൾ വരുത്തി Z ന്റെ മൂല്യം പരമാവധിയാക്കാൻ നമ്മൾ ശ്രമിച്ചു തന്നിരിക്കുന്ന ഒരു കൂട്ടം മെറ്റീരിയലുകൾക്ക് Z ന്റെ പരമാവധി മൂല്യം ഇതാണ് എന്ന് നമ്മൾ പറഞ്ഞു ഇത് ഈ ബന്ധത്തിൽ നിന്നാണ് വരുന്നത് 𝛾N𝛾P √ρN KP ρP KN Z ആശ്രയിക്കുന്ന രണ്ടാമത്തെ കാര്യം എന്താണ് അത് m ന്റെ മൂല്യത്തെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ m ന്റെ ഒപ്റ്റിമൽ മൂല്യത്തിന് ƞ എന്നത് ƞmax ആയി മാറും നമ്മൾ ഓർക്കുകയാണെങ്കിൽ m RL RP RN അല്ലെങ്കിൽ RL R ആണ് അപ്പോൾ നമുക്ക് അത് ചെയ്യാം ഇത് ഒരു ലളിതമായ ഗണിതപരമായ പ്രവൃത്തിയാണ് dƞdm 0 എന്നത് നമ്മൾക്ക് mopt√1ZTm നൽകും ഇവിടെ Tm യഥാർത്ഥത്തിൽ ശരാശരി താപനില THTC2 ആണ് നിങ്ങൾക്കിത് ഒരു ടാസ്ക് ആയി ചെയ്യാം നമ്മൾ ഇവിടെ നിന്ന് ഉരുത്തിരിഞ്ഞ കാര്യക്ഷമതയുടെ മൂല്യം നിങ്ങൾ എടുക്കുകയും m മായി ഡിഫറെൻഷ്യറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഈ എക്സ്പ്രഷൻ ലഭിക്കും അപ്പോൾ ഇത് എന്താണ് അർത്ഥമാക്കുന്നത് ഇതിനർത്ഥം നിങ്ങൾ ഈ രണ്ട് പദങ്ങൾ സ്ക്വയർ ചെയ്യുന്നു എന്നാണ് അതുപോലെ ഞാൻ പറയുന്നത് 1 mopt ZTm mopt 1 എന്നാണ് അതിനാൽ ƞ max TH mopt 1 mopt TC TH എന്ന രീതിയിൽ എഴുതാം വളരെ ലളിതമായ ഒരു എക്സ്പ്രഷൻ ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്തത് ഇത് ƞmax ആണ് ഇവിടെ mopt 1 Z Tm എന്നും Tm12TH TC എന്നും ഇവിടെ എഴുതാം ഇവിടെ ഇത് വ്യക്തമായി നിർവചിച്ചിരിക്കുന്നു അതിനാൽ അനുപാതം ഈ സമവാക്യത്തെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിൽ ബാഹ്യ പ്രതിരോധം തിരഞ്ഞെടുക്കുന്നതിലൂടെ പ്രതിരോധ അനുപാതം m യുമായി ബന്ധപ്പെട്ട് എനിക്ക് കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ കഴിയുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ചോദിക്കാവുന്ന ചോദ്യം എനിക്ക് രണ്ടും ചെയ്യാൻ കഴിയുമോ എന്നാണ് ഞാൻ Z ന്റെ മൂല്യം പരമാവധിയാക്കിക്കൊണ്ട് കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു പ്രതിരോധ അനുപാതത്തിന്റെ ഒപ്റ്റിമൽ മൂല്യം കൊണ്ട് ഞാൻ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു ഉത്തരം അതെ എന്നാണ് ഞാൻ എന്തുചെയ്യുമെന്ന് നിങ്ങൾക്കറിയാമോ നമ്മൾ ആദ്യം തെർമോഇലക്ട്രിക് ഘടകങ്ങളുടെ ജ്യാമിതി ഉപയോഗിച്ച് മാറ്റങ്ങൾ വരുത്തും അതായത് ഈ Z ഒപ്റ്റിമൈസ് ചെയ്ത് നമുക്ക് ആ Z മാക്സ് മൂല്യം ലഭിക്കും തുടർന്ന് m ഉപയോഗിച്ചുള്ള മാറ്റത്തിനും ഈ ബന്ധം തൃപ്തിപ്പെടുത്താനും നമ്മൾ ബാഹ്യ പ്രതിരോധ മൂല്യം RL മാറ്റും അതിനാൽ നമ്മൾ RL മാത്രം ഉപയോഗപ്പെടുത്തും അങ്ങനെയാണ് m ഒപ്റ്റിമത്തിന്റെ ഈ മൂല്യം നമുക്ക് ലഭിക്കുന്നത് അതിനാൽ അത് സാധ്യമാണ് ഇത് പരമാവധി കാര്യക്ഷമതയ്ക്കായിരുന്നു പക്ഷേ എന്നിരുന്നാലും നമ്മൾ ചെയ്യേണ്ടത് കാര്യക്ഷമത തീർച്ചയായും വളരെ പ്രധാനമാണ് കാരണം എനിക്ക് താപോർജ്ജം ലഭ്യമാണെങ്കിൽ അതിൽ നിന്ന് എത്രമാത്രം ഊർജ്ജം എനിക്ക് വേർതിരിച്ചെടുക്കാൻ കഴിയും എന്നത് തീർച്ചയായും പ്രധാനമാണ് എന്നിരുന്നാലും വിവിധ ആപ്ലിക്കേഷൻ അനുസരിച്ചു പരമാവധി വർക്ക് ഔട്ട്പുട്ട് എത്രയാണ് എന്നതും ഒരുപോലെ പ്രധാനമാണ് അത് പരമാവധി കാര്യക്ഷമതയുമായി പൊരുത്തപ്പെടുന്നില്ലായിരിക്കാം എന്നത് ശരിയാണ് എന്നാൽ തന്നിരിക്കുന്ന ഒരു കൂട്ടം ഘടകങ്ങൾക്കും പ്രതിരോധങ്ങൾക്കും എനിക്ക് ലഭിക്കുന്ന പരമാവധി വർക്ക് ഔട്ട്പുട്ട് എന്താണ് പരമാവധി വർക്ക് ഔട്ട്പുട്ടിനായി ഞാൻ എന്തുചെയ്യും ഞാൻ WL ന്റെ ഈ മൂല്യത്തിലേക്ക് പോകും WLm1m2 അപ്പോൾ ഈ സംഖ്യയെ ഒരു സ്ഥിരാങ്കത്താൽ ഞാൻ നിർവചിക്കാം ഇത് C ആക്കാം ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ ലളിതമാക്കുക എന്നതാണ് അപ്പോൾ അത് m 1 m2 C എന്നാവും ഇനി WL max ന് എന്ത് സംഭവിക്കും dWLdm എന്നത് 0 ന് തുല്യമാണ് ഇത് സൂചിപ്പിക്കുന്നത് C1m2 2m1m0 അതായത് m എന്നത് 1 ന് തുല്യമാണ് അല്ലെങ്കിൽ RL എന്നത് RPRN ന് തുല്യമാണ് ഇത് നിങ്ങൾക്ക് പരമാവധി വർക്ക് ഔട്ട്പുട്ട് നൽകുന്നു ഇനി അത് ഇതിലും താഴെയാണെങ്കിൽ എന്ത് സംഭവിക്കും അപ്പോൾ RL മൂല്യം കുറവാണോ അപ്പോൾ I2RL എന്നത് പരമാവധി മൂല്യമായിരിക്കില്ല നിങ്ങൾക്ക് m 1 ആണെങ്കിൽ ബാഹ്യ പ്രതിരോധം ഇവയേക്കാൾ കൂടുതലായിരിക്കും അങ്ങനെയെങ്കിൽ മൊത്തം കറന്റ് I യുടെ മൂല്യം കുറയുന്നു അതിനാൽ I2RL ന്റെ മൂല്യം വീണ്ടും പരമാവധി ആയിരിക്കണമെന്നില്ല അതിനാൽ ഇത് തൃപ്തികരമാകുമ്പോൾ I2RL പരമാവധി പോയിന്റിൽ എത്തുന്നു അത് പരമാവധി കാര്യക്ഷമത ആയിരിക്കണമെന്നില്ല അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സമവാക്യം ഞാൻ എഴുതട്ടെ WLmax14α2PN2RP RN എന്നതാണ് അത് കൂടാതെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ മൂല്യം കാര്യക്ഷമതയുടെ നിർവചനത്തിൽ ഉൾപ്പെടുത്താനും അനുബന്ധ കാര്യക്ഷമത നേടാനും കഴിയും ആ കാര്യക്ഷമത മുമ്പത്തെ ടാസ്ക്കിൽ നമ്മൾക്ക് ലഭിച്ച ηmax പോലെ ആയിരിക്കില്ലെന്ന് നിങ്ങൾ കാണും ഇത്രയുമാണ് നമ്മൾ ചെയ്ത വിശകലനങ്ങളെ കുറിച്ച് പറയാനുള്ളത് നമ്മൾ ഒരു തെർമോഇലക്ട്രിക് മൊഡ്യൂളിനെക്കുറിച്ച് ധാരാളം വിശകലനങ്ങൾ നടത്തി കാര്യക്ഷമതയ്ക്കായി നമ്മൾക്ക് എക്സ്പ്രഷനുകൾ ലഭിച്ചു തുടർന്ന് കാര്യക്ഷമത എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു കാര്യക്ഷമതയോ വർക്ക് ഔട്ട്പുട്ടോ പരമാവധിയാക്കാൻ നമ്മളുടെ നിയന്ത്രണത്തിലുള്ളത് എന്തെല്ലാമാണെന്നു കാണാൻ നമ്മൾ ശ്രമിച്ചു അവ രണ്ടും ഒരേപോലെ ആയിരിക്കണമെന്നില്ല എന്ന് നമ്മൾ കണ്ടു യഥാർത്ഥത്തിൽ പരമാവധി വർക്ക് ഔട്ട്പുട്ടിന് പരമാവധി കാര്യക്ഷമതയുമായി ബന്ധമില്ല അതിനാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനെ ആശ്രയിച്ചാണ് അത് നിങ്ങൾക്ക് പരമാവധി വൈദ്യുത ഉൽപ്പാദനം വേണമെങ്കിലാണത് നിങ്ങൾക്ക് ധാരാളം ഊർജ്ജം ലഭ്യമാണെങ്കിൽ നിങ്ങൾക്ക് പരമാവധി വർക്ക് ഔട്ട്പുട്ട് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് പോകും മറുവശത്ത് നിങ്ങൾക്ക് ഊർജ്ജം വളരെ വിവേകത്തോടെ ഉപയോഗിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ പരമാവധി കാര്യക്ഷമതയോടെ എങ്കിൽ നമുക്ക് ലഭ്യമായ പാഴായ താപത്തെ ഭൂരിഭാഗവും പരിവർത്തനം ചെയ്യാനും ഉപയോഗപ്രദമായ വൈദ്യുതോർജ്ജമാക്കി മാറ്റാനും നിങ്ങൾ ആഗ്രഹിക്കും തുടർന്ന് നിങ്ങൾ കാര്യക്ഷമത വർദ്ധിപ്പിക്കും അതിനാൽ നമ്മൾ അടുത്തതായി എന്താണ് ചെയ്യാൻ പോകുന്നത് രണ്ട് കോൺഫിഗറേഷനുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇത് പൂർത്തിയാക്കും സംയോജിത സൈക്കിൾ പവർ പ്ലാന്റിൽ തെർമോ ഇലക്ട്രിക് ജനറേറ്ററുകൾ എങ്ങനെ ഉപയോഗിക്കാം എന്ന് നമുക്ക് പറയാം അതിനാൽ സംയുക്ത സൈക്കിൾ പവർ പ്ലാന്റിലെ TEG രണ്ട് തരത്തിൽ ഉപയോഗിക്കാം ഇത് വെറും ചെറിയ പരാമർശങ്ങൾ മാത്രമാണ് ഒരു സ്റ്റീം ടർബൈൻ പ്ലാന്റിലെ എസ് ടി പ്ലാന്റിൽ ടോപ്പിംഗ് സൈക്കിളായോ ഗ്യാസ് ടർബൈൻ പ്ലാന്റിലെ ബോട്ടമിംഗ് സൈക്കിളായോ ഇത് ഉപയോഗിക്കാം അപ്പോൾ എന്താണ് ഇത് അർത്ഥമാക്കുന്നത് ആദ്യ സന്ദർഭത്തിൽ ഞാൻ ഒരു ടോപ്പിംഗ് സൈക്കിളായി ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്നത് ഞാൻ പാഴായ താപം ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ തെർമോഇലക്ട്രിക് ജനറേറ്ററിലേക്കുള്ള ഇൻപുട്ടായി ആദ്യം താപോർജ്ജ സ്രോതസ്സ് ഉപയോഗിക്കുകയും കുറഞ്ഞ കാര്യക്ഷമതയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു പിന്നെ നമ്മൾ മുൻ വിശകലനത്തിൽ കണ്ട നിരസിക്കപ്പെട്ട താപം QC സ്റ്റീം ടർബൈൻ പ്ലാന്റിലേക്കുള്ള ഹീറ്റ് ഇൻപുട്ടായി നമ്മൾ കൊടുക്കുന്നു ഗ്യാസ് ടർബൈൻ പ്ലാന്റിലെ ബോട്ടമിംഗ് സൈക്കിൾ എന്താണെന്നു വെച്ചാൽ വാതക ടർബൈനിൽ നിന്നുള്ള എക്സ്ഹോസ്റ്റ് വാതകങ്ങളിൽ അടങ്ങിയിരിക്കുന്ന താപോർജ്ജം തെർമോ ഇലക്ട്രിക് ജനറേറ്ററിന് വേണ്ടിയുള്ള താപ സ്രോതസ്സായി നമ്മൾ ഉപയോഗിക്കുന്നു അവസാനമായി ഞാൻ എന്തുചെയ്യും ഒരു കാസ്കേഡിംഗ് മൾട്ടി സ്റ്റേജ് ഓപ്പറേഷൻ എന്ന് വിളിക്കപ്പെടുന്ന ഒന്നിനെ കുറിച്ച് പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കും എനിക്ക് ഒരു വലിയ താപനില വ്യത്യാസം ലഭ്യമാണെങ്കിൽ എന്തുചെയ്യാൻ കഴിയുമെന്നു പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഇവിടെ T1 ഉണ്ട് എനിക്ക് താഴെ T2 ഉണ്ട് ഇങ്ങനെയെങ്കിൽ ലളിതമായ ഒരു തെർമോ ഇലക്ട്രിക് ജനറേറ്റർ ഉപയോഗിക്കുന്നതിന് പകരം ഈ രീതിയിൽ എനിക്ക് നിരവധി TEG കൾ ഇവിടെ കൊണ്ടുവരാം അതിനാൽ എന്താണ് സംഭവിക്കുന്നത് ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന ഇന്റർമീഡിയറ്റ് താപനിലകൾ ഏതൊക്കെയാണ് ആദ്യത്തെ TEG പ്രവർത്തിക്കുന്നത് TH ലാണ് ഇത് TC ആണ് പിന്നെ എനിക്ക് T1 ഉണ്ട് T2 ഉണ്ട് T3 ഉണ്ട് അതുപോലെ എനിക്ക് Tn ഉണ്ട് ഇങ്ങനെയായാൽ എന്താണ് സംഭവിക്കുന്നതെന്നു വെച്ചാൽ കാര്യക്ഷമത വ്യത്യസ്തമായിരിക്കും അതിനാൽ ƞ11 Q2Q1 എനിക്ക് ഇവിടെ Q1 വരുന്നു തുടർന്ന് ഇവിടെ Q2 വരുന്നു അങ്ങനെ അത് പോകുന്നു അപ്പോൾ Q2 Q11 ƞ1 എന്ന് പറയാം അതുപോലെ ƞ21 Q3Q2 ആണ് അപ്പോൾ Q3Q11 ƞ1 1 ƞ2 എന്നാവും കൂടാതെ സമാനമായി ഇത് താഴേക്ക് തുടർന്നുകൊണ്ടേയിരിക്കും അവസാനമായി നമുക്ക് ലഭിക്കുന്നത് ƞOVERALL1 QC Q1 1 ƞ1 1 ƞ2 1 ƞn അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ 1 പ്രോഡക്റ്റ്Π ലിമിറ്റ് i 1 മുതൽ n 1 ƞi കൂടാതെ ƞ OVERALL എന്നത് 1 ƞsn ന് തുല്യമാകാം എങ്ങനെയെന്നു വെച്ചാൽ ƞ1 ƞ2ƞ3 ƞn എല്ലാം സമമായിരിക്കണം ഇപ്പോൾ നിങ്ങൾ ഇത് ഓർക്കുക n വർദ്ധിപ്പിക്കുകയാണെങ്കിൽ എന്റെ മൊത്തത്തിലുള്ള കാര്യക്ഷമത വർദ്ധിക്കുന്നു എന്ന് ഇതിനർത്ഥമില്ല യഥാർത്ഥത്തിൽ ഈ പദപ്രയോഗം നിങ്ങൾക്ക് ആ ധാരണ നൽകുന്നു നിങ്ങൾ ഘട്ടങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചാൽ എന്റെ മൊത്തത്തിലുള്ള കാര്യക്ഷമത വർദ്ധിക്കും പക്ഷേ അത് അങ്ങനെയല്ല കാരണം ഓരോ തവണയും നിങ്ങൾ ഘട്ടങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുമ്പോൾ സംഭവിക്കുന്നത് ഈ തെർമോ ഇലക്ട്രിക് ജനറേറ്ററുകളിൽ ഓരോന്നിലും താപനില കുറയും അതിനാൽ ƞs ഓരോ തെർമോ ഇലക്ട്രിക് ജനറേറ്ററുകളുടെയും വ്യക്തിഗത കാര്യക്ഷമത കുറഞ്ഞുകൊണ്ടിരിക്കും അതിനാൽ അതിന്റെ അർത്ഥം ഞാൻ n വർദ്ധിപ്പിക്കുന്നത് തുടരുകയാണെങ്കിൽ എന്റെ ƞs മാറുകയോ കുറയുകയോ ചെയ്യും അതിനാൽ ഞാൻ ഘട്ടങ്ങളുടെ എണ്ണം അനിശ്ചിതമായി വർധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് ഉയർന്ന കാര്യക്ഷമത കിട്ടും എന്ന് ഇതിനർത്ഥമില്ല ഇത് താപനില ബാൻഡിൽ പരിമിതപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ അങ്ങനെ ഇത് തെർമോ ഇലക്ട്രിക് ജനറേറ്ററിന്റെ അവസാനത്തിലേക്ക് നമ്മെ എത്തിക്കുന്നു നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു തെർമോഇലക്ട്രിക് ഉൽപ്പാദനം എന്താണെന്ന് മനസ്സിലാക്കിയാണ് നമ്മൾ തുടങ്ങിയത് അതിന്റെ സാധ്യതയുള്ള ആപ്ലിക്കേഷനുകൾ എന്തൊക്കെയാണ് പാഴാക്കുന്ന ചൂട് വീണ്ടെടുക്കാൻ ഇന്ന് എവിടെയാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നിട്ട് നമ്മൾ ചെയ്തത് തെർമോ ഇലക്ട്രിക് മൊഡ്യൂളിന്റെ വിശകലനത്തിലേക്ക് പോയി എങ്ങനെ കാര്യക്ഷമത കണക്കാക്കാം എങ്ങനെയാണ് നമ്മൾ എനർജി ബാലൻസ് ചെയ്യുന്നത് പിന്നെ എങ്ങനെയാണ് നമുക്ക് കാര്യക്ഷമത വർദ്ധിപ്പിക്കുക കാര്യക്ഷമത എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു അവസാനമായി കാസ്കേഡിംഗ് മൾട്ടിസ്റ്റേജ് ഓപ്പറേഷനെ ക്കുറിച്ചുള്ള ഒരു ചെറിയ ചർച്ച നമ്മൾ പൂർത്തിയാക്കി അവിടെ ഒരു നിശ്ചിത താപനില വ്യത്യാസത്തിന് നമുക്ക് നിരവധി തെർമോ ഇലക്ട്രിക് ജനറേറ്ററുകൾ ഘട്ടം ഘട്ടമായി ഉപയോഗിക്കാം അതിനുള്ള കാര്യക്ഷമത എങ്ങനെ കണക്കാക്കാം എന്ന് കണ്ടു അതിനാൽ ചലിക്കുന്ന ഭാഗങ്ങളില്ലാത്ത പ്രവർത്തന ദ്രാവകങ്ങളില്ലാത്ത സോളിഡ് സ്റ്റേറ്റ് ഉപകരണം ഉപയോഗിച്ച് താപോർജ്ജത്തെ നേരിട്ട് വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന നേരിട്ടുള്ള പരിവർത്തന ഉപകരണത്തിന്റെ ആദ്യ തരം അതായിരുന്നു ഈ ചർച്ചയിലൂടെ നിങ്ങൾ പുതിയ എന്തെങ്കിലും പഠിച്ചുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അടുത്ത പ്രഭാഷണത്തിൽ നമ്മൾ ചെയ്യുന്നത് മറ്റൊരു തരത്തിലുള്ള നേരിട്ടുള്ള പരിവർത്തന ഉപകരണത്തിലേക്ക് പോകുകയാണ് വളരെയധികം നന്ദി